നാം നേരത്തേ സർക്യട്ട് മാതൃക വികസിപ്പിക്കുന്നതിനെക്കുറിച്ചു പറഞ്ഞിരുന്നല്ലോ എയർ ഗ്യാപ് ടോർക്വിനും പവർ ഔട്ട്പുട്ടിനും ഇടയിലുള്ള പ്രവർത്തനശക്തി അറിയേണ്ടിയിരിക്കുന്നു അതിനുമുമ്പ് ഇൻഡക്ഷൻ മെഷീന്റെ പ്രവർത്തന തത്വത്തെക്കുറിച്ച് പറയുംമുൻപ് റോട്ടർ ഹ്രസ്വപരിവാഹം ചെയ്യുമ്പോൾ അത് സ്റ്റേറ്റർ കാന്തികക്ഷേത്രത്തിന്റെ ദിശയിലേക്ക് നീങ്ങുമെന്ന് നാം ചർച്ച ചെയ്തിരുന്നല്ലോ എന്നാൽ അതൊരിക്കലും n ns എന്ന സ്ഥിതിയിൽ എത്തില്ല അതിനാൽ ടോർക് വാസ്തവത്തിൽ 0 ആയിരിക്കും π r എന്ന ധ്രുവത്തിനുള്ള ഫീൽഡ് ഫ്ളക്സ് ഉം സ്ഥിരപാതയും തമ്മിലുള്ള പരസ്പരപ്രവർത്തനം നിശ്ചലമായിരിക്കും കൂടാതെ എഫ് ആർ ദിശയിൽ ടോർക്ക് വികസിപ്പിക്കും എങ്കിൽ ഡയഗ്രം കാണുക അന്തിമമായി n വേഗതയിൽ സ്റ്റേറ്റർ കാന്തിക മേഖലയുടെ ദിശയിൽ റോട്ടോർ കറങ്ങുന്നു എന്നാൽ nsനേക്കാൾ കുറവാണ് n ശാശ്വതമായ വേഗം നേടിയെടുക്കാൻ സാധിക്കുന്നുമില്ല അതിനാൽ ഇപ്പോൾ സർക്യൂട്ട് മാതൃക വികസിതമാകുന്നതോടെ കാര്യങ്ങൾ വിഷമകരമല്ല അൽപം കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്കു സാധിക്കണമെന്നേ ഉള്ളൂ അതിനാൽ ഇപ്പോൾ വായു വിടവ് ടോർക്ക് വിദ്യുച്ഛക്തി ഉത്പാദനം എന്നിവയിലുടനീളമുള്ള വിദ്യുച്ഛക്തി കാണുക വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ വിദ്യുച്ഛക്തി എന്ന് വിളിക്കുന്നത് അതിന് ഒരു സ്റ്റേറ്റർ ഉണ്ട് പിന്നെ സ്റ്റേറ്ററിനും റോട്ടറിനും ഇടയിൽ ഒരു റോട്ടർ ഉണ്ട് ഒരു വിടവുണ്ട് റോട്ടറിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ വിദ്യുച്ഛക്തി യഥാർത്ഥത്തിൽ നിക്ഷേപിക്കപ്പെട്ടതാണ് അതാണ് സ്റ്റേറ്ററിലേക്കുള്ള നിക്ഷേപിക്കപ്പെട്ട വിദ്യുച്ഛക്തി സ്റ്റേറ്റർ നഷ്ടം ആ ശക്തി യഥാർത്ഥത്തിൽ വായു വിടവിലൂടെ കൈമാറ്റം ചെയ്യപ്പെടും അവിടെയാണ് കാന്തികക്ഷേത്രം അതിനാൽ അത് റോട്ടറിലേക്കുള്ള നിക്ഷേപ ഊർജം ആയിരിക്കും അതിനാൽ വായു വിടവിന് കുറുകെയുള്ള വിദ്യുച്ഛക്തി എന്ന് നമ്മൾ വിളിക്കുന്നു അതായത് കാന്തിക മണ്ഡലം ഉള്ള വായു വിടവിലൂടെയാണ് വൈദ്യുതി യഥാർത്ഥത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നത് വായു വിടവിലൂടെ വിദ്യുച്ഛക്തി എന്ന് വിളിക്കുന്നത് അതിനാലാണ് അതിനാൽ ഈ പദപ്രയോഗത്തിൽ അത്തരം ആശയക്കുഴപ്പമില്ല വായു വിടവിലൂടെയുള്ള വിദ്യുച്ഛക്തി അതിനാൽ ഈ രേഖാചിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നാമകരണത്തിലേക്കും മറ്റ് കാര്യത്തിലേക്കും വരും രേഖാചിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ഈ ഒരു ബിന്ദു a ഉം ഈ ബിന്ദു b ഉം ആണ് ഇത് സ്റ്റേറ്ററിന്റെ പ്രതിരോധവും പ്രതിപ്രവർത്തനവും ആണ് ഇതാണ് കോർ നഷ്ടത്തിന്റെ ഘടകം ഇത് കാന്തിക ഘടകമാണ് ഇതാണ് a ഇത് b PG ആക്കുമ്പോൾ 3 അതിനാൽ ഇത് വിദ്യുച്ഛക്തിഘട്ടമാണ് വിദ്യുച്ഛക്തിയാണ് P a അതാണ് PG ഇത് റോട്ടർ വശം ആണ് ഇതാണ് പ്രതിപ്രവർത്തനം ഇത് r2 S ആണ് കാരണം ഈ ഭാഗം ഒരു വേരിയബിൾ ഭാഗമാണ് ഇത് ശൃംഖലയെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ r2 S ഇപ്പോൾ ഇത് യഥാർത്ഥത്തിൽ a b എന്ന ശക്തിയെ മറികടക്കുന്നു ഇത് യഥാർത്ഥത്തിൽ റോട്ടർ വശത്തേക്ക് നിക്ഷേപിക്കപ്പെട്ട വിദ്യുച്ഛക്തി ആണ് അതിനാൽ ഇതാണ് നിലവിലെ I1 ഇത് നിലവിലെ I2 ഇതാണ് I 0 ട്രാൻസ്ഫോർമർ സർക്യൂട്ടുമായി സാമ്യമുള്ളത് ഇവിടെ മാത്രം r2 by S ആണ് കാരണം ഇതൊരു കറങ്ങുന്ന ഉപകരണമാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ ഇതാണ് വൈദ്യുതിയുടെ പ്രവാഹപാത ഇപ്പോൾ a b എന്ന വിദ്യുത്ച്ഛേദം കടക്കുന്ന പ്രവർത്തനശക്തി ഇതാണ് വിദ്യുത്ച്ഛേദം ചിത്രം 10 ലെ അടയാളം നോക്കൂ ഇത് ഓരോ ഘട്ടത്തിലും ഉള്ള വൈദ്യുതി ഇൻപുട്ട് ആണ് സ്റ്റേറ്റർ നഷ്ടം സ്റ്റേറ്റർ കോപ്പർ നഷ്ടവും ഇരുമ്പ് നഷ്ടവുമാണ് അതിനാൽ ഇതാണ് I I2 R i അതാണ് ഇരുമ്പ് നഷ്ടം ഇവിടെ I12 2 r1 എന്നത് സ്റ്റേറ്റർ കോപ്പർ നഷ്ടമാണ് അതിനാൽ സ്റ്റേറ്ററിൽ നിന്ന് റോട്ടറിലേക്ക് വായു വിടവ് കാന്തികക്ഷേത്രം വഴി കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രവർത്തനശക്തി ഇതാണ് ഇതാണ് n വായു വിടവിലൂടെയുള്ള പ്രവർത്തനശക്തി അത് 3 ഘട്ടമാണ് PG എന്ന് പ്രതീകപ്പെടുത്തുന്നത് അതിനാൽ ചിത്രം 10 ൽ നിന്ന് PG എന്നത് 3 I2 2 I2 2 r2 S ആയിരിക്കും ഡയഗ്രം നോക്കുകയാണെങ്കിൽ ഇതാണ് PG3 ഫേസ് പവർ PG 3 എന്നാൽ പ്രവർത്തന ശക്തിയുടെ ഘട്ടം ആണ് എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ 3 ഫേസ് പവർ 3 I2 2 r2 S ആയിരിക്കും ഞാൻ ഉദ്ദേശിച്ചത് ഈ വശമാണ് അങ്ങനെ ഇതിനർത്ഥം PG എന്നത് വായു വിടവിലൂടെയുള്ള പ്രവർത്തനശക്തിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് PG എന്നത് വായു വിടവിന് കുറുകെയുള്ള പ്രവർത്തനശക്തിയാണ് ഈ 3 I2 2 r2' ഇത് അടിസ്ഥാനപരമായി റോട്ടർ കോപ്പർ നഷ്ടമാണ് അതായത് ഇത് റോട്ടർ കോപ്പർ നഷ്ടം സ്ലിപ്പ് കൊണ്ട് ഹരിച്ചാൽ അല്ലെങ്കിൽ റോട്ടർ കോപ്പർ നഷ്ടം സ്ലിപ്പ് PG റോട്ടർ കോപ്പർ നഷ്ടം സ്ലിപ്പ് PG സ്ലിപ്പ് S ആണ് അതിനാൽ S PG അല്ലെങ്കിൽ റോട്ടർ കോപ്പർ നഷ്ടം P cr S PG ആണ് അത് S PG ആണ് എന്നാൽ കുറുകെ ഗുണിച്ചാൽ S PG 3 I2 2 I2 അതിനാൽ ഇവിടെ p എന്നത് റോട്ടർ കോപ്പർ നഷ്ടം S PG 3 I2 2 r2 ഇത് സമവാക്യം 20 ആണ് ഇപ്പോൾ യന്ത്രം ഉപയോഗിച്ചുള്ള പ്രവർത്തന ശക്തിയുടെ ഉത്പാദനം അതായത് മൊത്തത്തിലുള്ള പ്രവർത്തന ശക്തി അതായത് പിഎം PG അതായത് വായു വിടവിലൂടെയുള്ള പ്രവർത്തന ശക്തി ഈ റോട്ടർ കോപ്പർ ഭ്രംശം അത് യന്ത്രം ഉപയോഗിച്ചുള്ള പ്രവർത്തന ശക്തിയുടെ ഉത്പാദനം ആയിരിക്കും അതിനാൽ ഇത് Pm PG 3 I2 2 r2 ആയിരിക്കും എന്നാൽ PG 3 I2 2 r2 S ഇവിടെ PG പകരം വെയ്ക്കുക ആണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 3 I2 2 r2 എടുക്കുക സാധാരണമാണ് അത് 1 S ആയിരിക്കും ഈ ഭാഗം PG ആയിരിക്കും കാരണം PG 3 I2 2 r2 S അതിനാൽ ഈ ഭാഗം PG ആയിരിക്കും അതിനാൽ 1 S PG ആയിരിക്കും ഇത് സമവാക്യം 21 ആണ് ഇപ്പോൾ ഇതിനർത്ഥം ആകെ യന്ത്രം ഉപയോഗിച്ചുള്ള പ്രവർത്തന ശക്തിയുടെ ഉത്പാദനം പ്രതിരോധത്തിൽ ആഗിരണം ചെയ്യപ്പെടുന്ന വൈദ്യുത ശക്തിയുടെ 3 മടങ്ങ് അതായത് 3 ഘട്ടം r2 1S 1 അതിനാൽ ഇത് ആണ് യഥാർത്ഥത്തിൽ മൊത്തമായ യന്ത്രം ഉപയോഗിച്ചുള്ള പ്രവർത്തന ശക്തിയുടെ ഉത്പാദനം mechanical power output ചിത്രം 10 ൽ നിന്ന് ചിത്രം 11 ലെ പോലെ വരയ്ക്കാൻ കഴിയുമോ എന്ന് നമുക്ക് കാണാം ഇവിടെ r2 r2S ആയി പ്രതിനിധീകരിക്കുന്നു ഇവിടെ r2 r2 1S 1 എഴുതാം അതായത് r2' ചേർക്കുക r2 കുറയ്ക്കുക അതിനാൽ ഈ ഭാഗം ലോഡ്പ്രതിരോധമായിരിക്കും r2 അതിനാൽ ഇത് x 2 എന്ന് പറഞ്ഞാൽ ഇത് r2 റോട്ടർ പ്രതിരോധo ആണ് ഈ മറ്റൊരു കാര്യം ബാക്കിയുള്ളത് r2 1S 1 യഥാർത്ഥത്തിൽ ഇവിടെ ലോഡ് റെസിസ്റ്റൻസ് ആണ് അതിനാൽ ഈ r2 S എന്നതിൽ നിന്ന് ഞാൻ ഒന്നും അർത്ഥമാക്കുന്നില്ല ഈ വൈദ്യുതിയുടെ പ്രവാഹപാതയിൽ നിന്ന് മാത്രം ആ r2 S എന്നത് r2 r2 1S 1 എന്ന് മാത്രം എഴുതിയിരിക്കുന്നു അതിനാൽ ഈ വഴിക്ക് ഗണിതശാസ്ത്രപരമായി ഇതുപോലെ പ്രതിനിധീകരിക്കാൻ കഴിയും അതിനാൽ ഇത് ലോഡ് പ്രതിരോധമാണ് അതിനാൽ ഇത് ലോഡ് റെസിസ്റ്റൻസ് എന്ന് ചിത്രം 11 ൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോൾ സമവാക്യം 21 ൽ നിന്ന് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു യന്ത്രപ്രവർത്തിതമായ വിദ്യുച്ഛക്തിയുടെ ഉത്പന്നം എന്ന് പറയുന്നത് റോട്ടറിലേക്ക് വിതരണം ചെയ്യുന്ന മൊത്തം വൈദ്യുതിയുടെ o1 S ന്റെ ഒരു ഘടകമാണ് നമ്മൾ Pm 1 S PG എന്ന്കണ്ടു ഇവിടെ Pm സമവാക്യം 21 1 S PG PG എന്നത് വായു വിടവിൽ കൂടെ ഉള്ള വിദ്യുച്ഛക്തി ആണ് p v എന്നത് യന്ത്രപ്രവർത്തിതമായ വിദ്യുച്ഛക്തിയുടെ ഉത്പന്നം ആണ് അത് 1 S PG ആണ് അതിനാൽ ഞാൻ അതിന്റെ ഭാഷയിലാണ് എഴുതുന്നത് സമവാക്യം 20 അനുസരിച്ച് റോട്ടർ ചെമ്പിന്റെ നഷ്ടത്തിൽ എസ് ന്റെ ഒരു ഭാഗം വിഘടിപ്പിക്കപ്പെടുന്നു അതിനാൽ ചെമ്പ് നഷ്ടം S PG അവിടെ വായു വിടവിന്റെ വിദ്യുച്ഛക്തിയുടെ അംശം ചെമ്പ് നഷ്ടമാകും ഇതാണ് Pm 1 ബാക്കി 1 S ആയിരിക്കും അതാണ് നമ്മൾ PG എന്ന് വിളിക്കുന്നത് അതിനാൽ അടിസ്ഥാനപരമായി ഇത് PG S PG ആയിരിക്കും അതിനാൽ അടിസ്ഥാനപരമായി അത് ആയിരിക്കും PG റോട്ടർ ചെമ്പ് നഷ്ടം അതിനാൽ ഇൻഡക്ഷൻ മോട്ടോറിന്റെ ഉയർന്ന സ്ലിപ്പ് പ്രവർത്തനം വളരെ കാര്യക്ഷമമല്ലാത്തതും വളരെ ഉയർന്ന സ്ലിപ്പിൽ പ്രവർത്തിക്കുന്നതുമാണെന്ന് വ്യക്തമാണ് അതിനാൽ ആദ്യ കാര്യം S PG എന്ന അർത്ഥത്തിൽ ഇത് കാര്യക്ഷമമല്ല S ഉയർന്നതാണെങ്കിൽ അതായത് S കൂടുതലാണെങ്കിൽ ചെമ്പ് നഷ്ടം കൂടുതലായിരിക്കും അതിനാൽ സമവാക്യം 5 ൽ നിന്ന് നമ്മൾ S 1 n n s അതിനാൽ അതേ കാര്യത്തിന് 1 ω ω S എഴുതാം അംശം ഭിന്നസംഖ്യാഛേദം എന്നിവയെ 2 π കൊണ്ട് ഗുണിക്കുക അതിനാൽ ഇത് 2 π n എന്നത് ω ആയിരിക്കും 2 π n S എന്നത് ω ആണ് S എന്നത് ഏകകാലികമായ വേഗതയാണ് അതിനാൽ ω 1 S ω എന്ന് എഴുതാം അതായത് സെക്കൻഡിൽ മെക്കാനിക്കൽ റേഡിയൻ ഇത് സമവാക്യം 22 ആണ് ഇപ്പോൾ വൈദ്യുതകാന്തിക ടോർക്ക് പവർ ടോർക്ക് കോണീയ വേഗത അതിനാൽ വൈദ്യുതകാന്തിക ടോർക്ക് വികസിപ്പിക്കുകയും ω 1 S ω S നൽകുകയും ചെയ്യുന്നു ഇരുവശവും t കൊണ്ട് ഗുണിക്കുക അതായത് ω T 1 S ω S T അതിലേക്ക് തിരികെ പോകുകയാണെങ്കിൽ സ്റ്റേറ്റർ റോട്ടറിലെ പദ്ധതിരൂപത്തിൽ ഉള്ള രേഖാചിത്രം അവിടെ f 1 f 2 f r ഉം ടോർക്കിന്റെ ദിശയും എല്ലാം ചൂണ്ടിക്കാണിക്കുന്നു ഞാൻ വീണ്ടും അതിലേക്ക് തിരികെ പോകുന്നില്ല നോക്കൂ ഇവിടെ അത് നൽകിയിരിക്കുന്നു അതിനാൽ ω T 1 S ω S നെ ഇരുവശവും T കൊണ്ട് ഹരിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ Pm ആണ് കാരണം Pm ω T അതിനാൽ കൂടാതെ Pm ω 1 S PG അതിനാൽ ഈ ടോർക്ക് 1 S അതായത് 1 S ω S T 1 S PG അതിനാൽ 1 S 1 S റദ്ദാക്കപ്പെടും അതിനാൽ ω S T PG T PGω S അതായത് PG 3 I2 2 r2 S ω S ന്യൂട്ടൺ മീറ്റർ ഇതാണ് സമവാക്യം 23 ഇനി അടുത്തത് ഒരു കമ്പ്യൂട്ടേഷണൽ നടപടിക്രമമാണ് ചില ബന്ധങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടവ ഇവയാണ് ഇത് എളുപ്പത്തിൽ മനസ്സിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ ഇപ്പോൾ അത് കമ്പ്യൂട്ടേഷണൽ നടപടിക്രമമാക്കാം അതിനാൽ ഈ സാഹചര്യത്തിൽ നമ്മൾ ചെയ്തത് ആ കോർ നഷ്ടം ഘടകം നീക്കം ചെയ്യുകയാണ് ഇതിനെയാണ് സ്റ്റേറ്റർ പ്രതലം എന്ന് വിളിക്കുന്നത് ഇതാണ് കാന്തിക ഭാഗം ഇതാണ് x 2 ഇത് r2 S ആണ് ഈ വൈദ്യുതി മണ്ഡലത്തിലേക്ക് ഒന്ന് നോക്കുക ഇങ്ങനെയൊക്കെയാണെങ്കിലും വായു വിടവ് PGയിലുടനീളം ഒരു ബി ഭാഗത്തിന് ഈ പ്രവർത്തനശക്തി നൽകിയിരിക്കുന്നു അതിനാൽ ഇത് എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുക Z f അതിനാൽ ഇത് യഥാർഥത്തിൽ Z f തന്നിരിക്കുന്നു കാരണം ഇതു വാസ്തവത്തിൽ പരമ്പരയായുള്ള സമാന്തര സർക്യൂട്ടാണ് അതിനാൽ ഈ x 2 r2 S is r2 S the x 2 ആണ് ഇത് j x m ന് സമാന്തരമാണ് അതിനാൽ r2Sjx2 ന് jxm സമാന്തരമാണ് ഇത് തുല്യമാക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് Rf j x f ഈ രീതിയിൽ ആക്കുകയാണെങ്കിൽ ഈ കണക്കുകൂട്ടലിന് ശേഷം യഥാർത്ഥവും സാങ്കൽപ്പികവുമായ ഭാഗം വേർതിരിക്കാനാകും ഞാൻ ഇത് ചെയ്യുന്നില്ല ദയവായി ഇത് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അതിനാൽ സിംഗിൾ ഫേസ് എസി സർക്യൂട്ട് ഇൽ ഇതേ കാര്യം സാധ്യമാക്കാനാവുമെന്ന് ഇതിനോടകം തന്നെ പഠിച്ചിട്ടുണ്ട് അതിനാൽ PG Rf j x f ആണ് അതിനാൽ PG 3 I1 2 Rf കാരണം എപ്പോഴാണ് ഇതിന് തുല്യമായത് ഉണ്ടാക്കുക അതിനാൽ വായു വിടവിനു കുറുകെയുള്ള പവർ 3 I1 2 Rf ആയിരിക്കും കാരണം ആ സമയത്ത് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഇവിടെ ഉണ്ടാക്കിയാൽ തുല്യമായ ഒരു സർക്യൂട്ട് ഉണ്ടാക്കുക ഇത് r1 ആണ് ഇത് x1 ആണ് ഇത് Rf ആണ് ഇത് x f ആണ് അതിനാൽ ഇവിടെ വൈദ്യുതിയുടെ പ്രവാഹപാത അടച്ചിരിക്കുന്നു ഇതാണ് വൈദ്യുതി ഇതാണ് വോൾട്ടേജ് v ഇതാണ് വൈദ്യുതി ഒഴുകുന്ന I1 അതിനാൽ ഇത് ആണ് r1 ഇതാണ് x1 ഇതാണ് Rf ഇതാണ് x f അതിനാൽ ജെ ഞാൻ ഇടുന്നില്ല അതിനാൽ j x1 j x j x f ഇത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അങ്ങനെ അതായത് ആ PG എന്നു വിളിക്കുന്നത് ഈ ബിന്ദുവിനെ ആയിരിക്കും ഈ ബിന്ദു യഥാർഥത്തിൽ a യും ഈ ബിന്ദു bയും ആണ് അതിനാൽ PG യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രവഹിക്കുന്ന അതേ I1 വൈദ്യുതി ആണ് ഇതിനെ തത്തുല്യമായ ഒന്ന് എന്ന് വിളിക്കേണ്ടത് അതിനാൽ അതേ I1 അതിനാൽ PG എന്നത് 3 I1 2 Rf ആയിരിക്കും കാരണം ഇതാണ് ഇവിടെ എന്റെ Rf ഞാൻ എഴുതിയ Rf ചെറുതാണ് അതിനാൽ അത് ചെറുതാക്കുന്നത് നന്നായിരിക്കും Rf അതിനാൽ ആശയക്കുഴപ്പം ഉണ്ടാകരുതെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് Rf ചെറിയ Rf അതിനാൽ ഇത് ചെറിയ Rf ആണ് 3 I1 2 Rf കൂടാതെ ടോർക്ക് PGω S അതിനാൽ 3 I1 2 Rf ω S എഴുതാം ഇവിടെ നോക്കൂ ഇവിടെ ചെറിയ Rf ആണ് അത് ആശയക്കുഴപ്പം ഉണ്ടാക്കരുത് അതിനാൽ ഇത് സമവാക്യം 24 ആണ് അങ്ങനെ അടുത്തത് ടോർക്ക് സ്ലിപ്പ്ന്റെ സ്വഭാവസവിശേഷതകളാണ് ഈ സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുന്നത് ചിത്രം 12 ൽ എ ബിയുടെ ഇടതുവശത്തുള്ള സർക്യൂട്ടിന്റെ തെവെനിൻ തുല്യത കണ്ടെത്തുന്നതിലൂടെ ടോർക്ക് സ്ലിപ്പ് സ്വഭാവവിശേഷത്തിന്റെ പദപ്രയോഗം എളുപ്പത്തിൽ ലഭിക്കും അതിനാൽ ഇത് ചിത്രം 12 ആണ് ഇത് നമ്മുടെ 12ാമതു ചിത്രമാണ് അതിനാൽ നമ്മൾ മാക്സിമം പവർ ട്രാൻസ്ഫർ സിദ്ധാന്തത്തിലോ തെവെനിൻ സിദ്ധാന്തത്തിലോ പഠിച്ചതുപോലെ തെവെനിൻ വോൾട്ടേജും തെവെനിൻ തുല്യമായ ഇംപെഡൻസും കണ്ടെത്താൻ ശ്രമിച്ചാൽ പരമാവധി ഊർജം പിന്നീട് വരും അതിനാൽ തെവെനിൻ സിദ്ധാന്തം നമ്മൾ പഠിച്ചു അതിനാൽ അതിനുശേഷം പുറത്തെടുക്കുന്ന വൈദ്യുതി കണ്ടെത്താൻ താൽപ്പര്യമുള്ള ശാഖയെ ഇവിടെ എന്താണ് വിളിക്കുന്നത് നമ്മൾ തെവെനിൻ വോൾട്ടേജും തെവെനിൻ ഇംപെഡൻസും അല്ലെങ്കിൽ ഡി സി സർക്യൂട്ടിനായി തെവെനിൻ റെസിസ്റ്റൻസ് കണക്കാക്കി അതേ രീതിയിൽ നമ്മൾ അത് ചെയ്യും അതിനാൽ ഈ സർക്യൂട്ടിന്റെ ഇടതുവശത്ത് നമുക്ക് ഇത് കാണാം ഇതിന്റെ ഇടതുവശത്ത് അമ്പടയാളം അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണാം അതിനാൽ അങ്ങനെ ചെയ്താൽ സർക്യൂട്ടിലേക്ക് വീണ്ടും വീണ്ടും നോക്കുക ഞാൻ സർക്യൂട്ടിലേക്ക് പോകുന്നില്ല ഇവ കേൾക്കുമ്പോൾ ദയവായി ലളിതമായ സർക്യൂട്ടും അത് ഇവിടെ വരച്ചിരിക്കുന്ന രീതിയും വരയ്ക്കുക അതിനനുസരിച്ച് j തെവെനിൻ അക്ഷരാർത്ഥത്തിൽ r 1 j x1 j x m ന് സമാന്തരമായി കണ്ടെത്തുന്ന ഈ കാര്യം എന്തുചെയ്യും അതിനാൽ അതിനു തുല്യമായിട്ടുള്ളത് r Thevenin j x Thevenin ആണ് ഒരിക്കൽ r Thevenin j x Thevenin എന്നു ലഭിച്ചാൽ അതെന്താണു കണക്കുകൂട്ടുന്നത് വൈദ്യുതി കണക്കൂകൂട്ടു അതിനാൽ VThevenin എന്നത് v j x mr1 j x1e x m എന്നാകും അതിനാൽ ഈ സാഹചര്യത്തിൽ എന്താണ് സംഭവിച്ചത് ഞാൻ ഉദ്ദേശിച്ചത് ഇത് ഇതുപോലെയാണെന്ന് ആണ് ഈ വശത്ത് നമ്മൾക്ക് താൽപ്പര്യമുണ്ട് ഈ വശം ഇല്ലാത്തതിനാൽ ഇത് മറക്കുക കാരണം വി തെവനിൻ എന്താണ് എന്നാണ് നമുക്ക് കണക്കാക്കേണ്ടത് അതിനർത്ഥം v a b ലെ വോൾട്ടേജ് ഇവിടെയുള്ള വോൾട്ടേജ് V a b b തെവെനിൻ അത് അവിടെയില്ല വൈദ്യുതി പ്രവഹിക്കുന്നു ഇതാണ് I അതിനാൽ I ഇത് അവിടെ ഇല്ലാത്ത മറ്റൊരു കാര്യത്തെക്കുറിച്ച് മറക്കുക അതിനാൽ I v r1 j x1 x m ഇതാണ് I അതിനാൽ ബി തെവെനിൻ വി എ ബി ഇതാണ് j x m ഇതേക്കുറിച്ചു മറന്നേക്കൂ ഈ ഭാഗം അവിടെ ഇല്ല മാത്രമല്ല ഈ പരമ്പരാ ഭാഗം ഞാൻ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ അതിനാൽ വി തെവനിൻ x m ആണ് അതിനാൽ ഇതാണ് പ്രതിപ്രവർത്തനം x m I അതിനർത്ഥം v എന്നതിനെ r1 j x1 x m കൊണ്ട് ഹരിച്ചതാണ് അതുകൊണ്ടാണ് വി തെവനിൻ അതിനാൽ അതേ കാര്യം തന്നെയാണ് ഞാൻ ഇവിടെ എഴുതുന്നത് VThevenin v j x mr one j x1 x m ഇപ്പോൾ ഇത് സമവാക്യം 25 ആണെന്ന് ഞാൻ കാണിച്ചു അപ്പോൾ സർക്യൂട്ട് ചിത്രം 13 ആയി കുറയുന്നു അതിൽ വി തെവനിൻ റഫറൻസ് വോൾട്ടേജായി എടുക്കാൻ സൌകര്യപ്രദമാണ് ഇപ്പോൾ അത് തേവേനിൻ തുല്യമാണ് ഇത് r Thevenin ഉം x Thevenin ഉം ആണ് ഇത് r2 S ആണ് യഥാർത്ഥത്തിൽ നമ്മൾ r2 S എഴുതുന്നത് ഇതേ സർക്യൂട്ട് r2 r2 പോലെയാണ് 1S 1 ഇത് ലോഡ് റെസിസ്റ്റൻസ് ഭാഗമാണ് സ്ലിപ്പ് മാറാൻ സാധ്യതയുള്ളതിനാൽ ഈ S മാറാൻ കഴിയുമെന്നതിനാൽ ഇത് ഒരു വേരിയബിൾ കാണിക്കുന്നു അതിനാൽ ഇത് r Thevenin x Thevenin ഇതാണ് ബിന്ദു a b തുടർന്ന് ഇത് ബന്ധിപ്പിച്ചിരിക്കുന്നു അടിസ്ഥാനപരമായി ഇത് x 2 r2 S ആണ് എന്നാൽ r2 S ഇതുപോലെ എഴുതിയിരിക്കുന്നു അതിനാൽ ഇത് I2 വൈദ്യുതി ആണ് ഇതാണ് വോൾട്ടേജ് V തെവെനിൻ ഇത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇപ്പോൾ ചിത്രം 13 ൽ I2 എഴുതുകയാണെങ്കിൽ അപ്പോൾ r Thevenin r2 S j x Thevenin x 2 എന്ന് എഴുതാം അത് ചെയ്ത് വൈദ്യുതധാരയുടെ അളവും 2 ഉം എടുത്താൽ I2 2 b Thevenin 2 ലഭിക്കും നമ്മൾ ഇതിനോടകം തന്നെ സിംഗിൾ ഫേസ് സർക്യൂട്ട് പഠിച്ചിട്ടുണ്ട് ഈ വൈദ്യുതധാരയുടെ അളവ് നമ്മൾ നേരിട്ട് എഴുതുകയാണ് I2 2 VThevenin 2 r r Thevenin r2 S 2 x Thevenin x 2 2 ഇപ്പോൾ ടോർക്ക് p PGω S അതിനാൽ PG 3 I2 2 r2 S ω S അതിനാൽ ഇത് 3ω S ആണ് ഇതിൽ നിന്ന് I2 2 ഇതിൽ നിന്ന് r2 നു പകരം s ചേർക്കൂ അതിനാൽ ഇതാണ് ടോർക്ക് ആവിഷ്കരണം ഇതാണ് സമവാക്യം 27 അതിനാൽ സമവാക്യം 27 പരിശോധിക്കുകയാണെങ്കിൽ വോൾട്ടേജിന്റെയും സ്ലിപ്പിന്റെയും പ്രവർത്തനമായി വികസിപ്പിച്ച ടോർക്കിന്റെ പ്രയോഗമാണ് സ്ലിപ് n ആണെങ്കിൽ സ്ലിപ്പിന്റെ നിശ്ചിത മൂല്യത്തിന് വോൾട്ടേജിന്റെ അതായത് തെവനിൻ വോൾട്ടേജിന്റെ വർഗത്തിന് ആനുപാതികമാണ് ടോർക് സ്ലിപ്പ് സ്ഥിരമാണെങ്കിൽ സ്ലിപ്പ് നൽകിയിട്ടുണ്ടെന്ന് കരുതുക എങ്കിൽ എല്ലാ പരിധികളും സ്ഥിരമായി തുടരും അതിനാൽ നിശ്ചിത വോൾട്ടേജിലെ ടോർക്ക് സ്ലിപ്പിന്റെ സവിശേഷതകൾ ചിത്രം 14 ൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ സത്യത്തിൽ മോട്ടോറിങ് ഭാഗത്തെക്കുറിച്ചോ ബ്രേക്കിങ് ഭാഗത്തെക്കുറിച്ചോ ഉൽപാദന ഭാഗത്തെക്കുറിച്ചോ നാം വളരെ കുറച്ചു മാത്രമേ പഠിക്കുന്നുള്ളൂ അതു തന്നിട്ടുണ്ട് എന്നാൽ നമുക്ക് അതിൽ താൽപര്യമില്ല ഈ ചിത്രം ഞാനൊരു പുസ്തകത്തിൽനിന്ന് എടുത്തതാണ് ഈ ഭാഗം വാസ്തവത്തിൽ ഒരു മോട്ടോറിങ് ഭാഗമാണ് ഇതു ബ്രേക്കിങ് ഭാഗവും ഇത് ബ്രേക്കിങ് രീതിയും മോഡു ഇത് ഉൽപാദനവും ഇത് മോട്ടോറിങ് രീതിയും ആണ് അതിനാൽ നമ്മൾ ജനറേറ്റിങ് രീതി പഠിക്കില്ല ബ്രേക്കിങ് രീതി ഈ ഭാഗം മാത്രം പഠിക്കില്ല അതിനാൽ ഒരു കാര്യം സ്ലിപ്പ് n S n എന്നത് n S കൊണ്ട് ഹരിക്കുന്നു ഈ ചിത്രത്തിലെ വേഗത ഇതുപോലെയാണ് സ്ലിപ്പ് ദിശ ഇതാണ് ഇപ്പോൾ n എന്നുവെച്ചാൽ n n S ഉദാഹരണത്തിന് n n S ആണെന്ന് കരുതുക അപ്പോൾ സ്ലിപ്പ് 0 അതിനാൽ ഇവിടെ 0 സ്ലിപ്പ് 0 ആണ് ഈ വശം അത് n 0 ആയിരിക്കുമ്പോൾ അതാണ് തുടക്കത്തിലുള്ള നിശ്ചലാവസ്ഥ ആ സമയത്തെ സ്ലിപ്പ് 1 ആയിരിക്കുo അതിനാൽ n 0 ആയിരിക്കുമ്പോൾ ഇതാണ് S ഒന്ന് എന്ന സ്ഥലം അതുകൊണ്ടാണ് വേഗം ഈ ദിശയിലും സ്ലിപ് ഈ ദിശയിലും ആകുന്നത് വേഗം വർധിക്കുന്നതിനാൽ അതായത് n വർധിക്കുകയാണെങ്കിൽ സ്ലിപ് ഇടത്തേക്കു നീങ്ങുകയും വേഗത ഇടത്തേക്കു നീങ്ങുകയും ചെയ്യുന്നു അതിനാൽ n പൂജ്യമായിരിക്കുമ്പോൾ അതായത് നിശ്ചലാവസ്ഥയിൽ സ്ലിപ് ഒന്നാണ് അതിനാൽ ഇത് ഒന്നാണ് ഇവിടെ വേഗത 0 ആണ് ഇതേക്കുറിച്ച് ആശങ്കപ്പെടേണ്ട ഈ വശം ബ്രേക്കിംഗ് മോഡ് ഈ വശം ജനറേറ്റിംഗ് മോഡ് എന്നതിനെ കുറിച്ച് കുറച്ച് വിശദീകരണം മാത്രമേ നൽകൂ ഈ ഘട്ടത്തിൽ സ്ലിപ്പ് 1 ആകുമ്പോൾ ഏത് ടോർക്ക് ആണ് എന്ന് നമ്മൾ കണ്ടെത്തും ഇത് സ്റ്റാർട്ടിംഗ് ടോർക്ക് TS ആണ് മറ്റൊരു കാര്യം ഇതാണ് ഇതാണ് ഈ സ്ലിപ്പ് ഇത് യഥാർത്ഥത്തിൽ നൽകിയിരിക്കുന്നു നമ്മൾ ഇങ്ങനെ Smax T എന്ന് എഴുതുന്നത് പോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ ടോർക്ക് പരമാവധി ആയ സ്ലിപ്പിന്റെ മൂല്യമാണിത് അതിനാൽ നമ്മൾ Smax T എഴുതുന്നു max T എന്നാൽ ഇത് T യുടെ മൂല്യമാണ് അതിന് പരമാവധി ടോർക്ക് ഉണ്ട് ഇതിനെ ബ്രേക്ക്ഡൌൺ ടോർക്ക് എന്ന് വിളിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ ഫുൾ ലോഡ് ഓപ്പറേറ്റിംഗ് പോയിന്റ് ആണ് അതിനാൽ സ്ലിപ്പിന്റെ കുറഞ്ഞ മൂല്യത്തിൽ ഇവിടെ ഒരു നേർരേഖ രൂപകൽപന ചെയ്തത് പോലെയുള്ള ഒന്ന് കണ്ടെത്തും ഈ ബിന്ദു മുതൽ ഈ ബിന്ദു വരെ സ്ലിപ്പ് മൂല്യം പ്രവർത്തിക്കും എവിടെയോ അത് പൂർണ്ണ ലോഡ് ഓപ്പറേറ്റിംഗ് പോയിന്റാണ് വരച്ചാൽ ഇത് ടോർക്ക് സ്ലിപ്പിന്റെ സവിശേഷതയാണ് ഈ ഭാഗം മാത്രമേ തരൂ കാരണം ഞാൻ ഇത് ഒരു പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ് അതിനാൽ ഞാൻ അത് കാണിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പൂർണ്ണതയ്ക്കായി എനിക്ക് ഇത് കാണിക്കണം എനിക്ക് ഇത് കാണിക്കണം അതുകൊണ്ടാണ് അതിൽ കുറച്ച് കാണിക്കുന്നത് പക്ഷേ ഞാൻ അത് വിശദീകരിക്കുന്നില്ല കാരണം ഇവിടെ ഒന്നാം വർഷ തലത്തിൽ അതിന്റെ ആവശ്യമില്ല രണ്ടാം വർഷത്തിലോ മൂന്നാം വർഷത്തിലോ ഇതേക്കാളേറെ കൂടുതൽ നാം പഠിക്കും എല്ലാം വിശദമായി പഠിക്കും അതാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഈ t max നെ നാം ബ്രേക്ക് ഡൌൺ എന്ന് വിളിക്കുന്നു ചിലപ്പോൾ നാം അതിനെ TBD എന്ന് വിളിക്കുന്നു അതായത് ആ പരമാവധി ടോർക്ക് ചിലപ്പോൾ TBDയെ ബ്രേക്ക്ഡൌൺ ടോർക്ക് എന്ന് വിളിക്കുന്നു ഇതിനെ പരമാവധി ടോർക്ക് എന്ന് വിളിക്കുന്നു അതിനാലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് മോട്ടോറിങ് മോഡും സ്ലിപ്പും പൂജ്യത്തിനും ഒന്നിനും ഇടയിലായിരിക്കും ഈ ചിത്രത്തിൽനിന്ന് സ്ലിപ് പൂജ്യത്തിന് ഇടയിലായിരിക്കുമെന്നും ഇവിടെ അത് ഒന്നാണെന്നും കാണുക അതിനാൽ സ്ലിപ്പിന്റെ ഈ ശ്രേണിക്ക് സർക്യൂട്ട് മാതൃകയിൽ ലോഡ് പ്രതിരോധം ചിത്രം 13 കാണുന്നത് പോലെ പോസിറ്റീവ് ആണ് വ്യക്തമായും റോട്ടർ കറങ്ങുന്ന ദിശയിൽ ഒരു യാന്ത്രികോർജ ഉൽപാദനം അല്ലെങ്കിൽ ടോർക്ക് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് S0 ടോർക്ക് 0 അതിനാൽ ഈ ഭാഗത്തു ടോർക്ക് 0 ആണ് കാരണം ഇത് y അക്ഷം ആണ് ഈ വശം ടോർക്കും ഇത് സ്ലിപ്പിന്റെ വേഗതയുമാണ് അതിനാൽ ടോർക്ക് ഈ ഘട്ടത്തിൽ 0 ആണ് ആ ടോർക്കിന് പരമാവധി മൂല്യം അല്ലെങ്കിൽ സ്ലിപ്പ് Smax T യിൽ ബ്രേക്ക്ഡൌൺ ടോർക്ക് TBD ഉണ്ട് ബ്രേക്ക്ഡൌൺ ടോർക്കിനേക്കാൾ കൂടുതൽ ലോഡു ചെയ്താൽ റോട്ടർ മോട്ടോറിന്റെ വേഗത കുറയുകയും അത് മന്ദ ഗതിയിൽ ആകുകയും ചെയ്യും ഇനി മറ്റൊരു കാര്യം S 1 ആണ് അതായത് റോട്ടർ നിശ്ചലമാകുമ്പോൾ ടോർക്ക് ആരംഭിക്കുന്ന ടോർക്ക് TSന് അനുരൂപമായിരിക്കുo രേഖാചിത്രത്തിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് പോലെ സാധാരണ രൂപകൽപ്പന ചെയ്ത മോട്ടോറിന് തുടക്കത്തിലുള്ള ടോർക്ക് ബ്രേക്ക്ഡൌണിനേക്കാൾ അല്ലെങ്കിൽ പരമാവധി ടോർക്ക് നേക്കാൾ കുറവായിരിക്കും അതിനാൽ സാധാരണ പ്രവർത്തന ബിന്ദു TBDക്കു താഴെയാണ് അത് പരമാവധി ടോർക്ക് ആണ് പൂർണ്ണ ലോഡ് സ്ലിപ്പ് സാധാരണയായി 2 മുതൽ 8 ശതമാനം വരെയാണ് അതിനാൽ ആ TBD ആണ് പരമാവധി ടോർക്ക് ശൂന്യ ലോഡിൽ നിന്ന് പൂർണ്ണ ലോഡിലും അതീതമായി നിൽക്കുന്ന ടോർക്ക് സ്ലിപ്പ് ന്റെ സ്വഭാവം രേഖീയമാണ് അതിനാൽ ഞാൻ രേഖീയ ഭാഗം കാണിച്ചു മറ്റൊരു കാര്യം കാണുക ഇതാണ് യഥാർത്ഥത്തിൽ ഇത് കോംപ്ലിമെന്റ് ജനറേറ്റിംഗ് മോഡിന് വേണ്ടിയുള്ളതാണ് സ്ലിപ്പ് നെഗറ്റീവ് ആണ് അതിനാൽ നെഗറ്റീവ് സ്ലിപ്പ് സൂചിപ്പിക്കുന്നത് റോട്ടർ ഒരു ഉയർന്ന സഹകാലീന വേഗത്തിൽ പ്രവർത്തിക്കുന്നതിനെയാണ് അതായത് n ns നേക്കാൾ വേഗതയിൽ പ്രവർത്തിക്കുന്നു അതായത് മോട്ടോർ ഒരു ജനറേറ്ററായി പ്രവർത്തിക്കുന്നു ചിത്രം 3 ന്റെ സർക്യൂട്ട് മാതൃകയിൽ ലോഡ് റെസിസ്റ്റൻസ് load resistance നെഗറ്റീവ് ആണ് അതിനർത്ഥം മെഷീൻ ടെർമിനലുകളിൽ വൈദ്യുത ശക്തി ഇല്ലാതാക്കുമ്പോൾ യാന്ത്രികോർജം നൽകണം എന്നാണ് നമ്മൾ ഇത് രണ്ടാം വർഷമോ മൂന്നാം വർഷമോ മെഷീൻ കോഴ്സിൽ പഠിക്കും അടുത്തത് സ്ലിപ് ഒന്നിനേക്കാൾ കൂടുതൽ ആകുമ്പോൾ1 ഉള്ള ബ്രേക്കിംഗ് മോഡ് നോക്കാം റോട്ടർ ചെമ്പിൽ മാത്രം താപമായി ചിതറിപ്പോകുന്ന യാന്ത്രികോർജം അതായത് ബ്രേക്കിംഗ് ആക്ഷൻ ആഗിരണം ചെയ്യുന്ന ഭ്രമണ മണ്ഡലത്തിന് അതായത് n 0 ൽ താഴെ എതിർ ദിശയിൽ മോട്ടോർ പ്രവർത്തിക്കുന്നു നെഗറ്റീവ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിപരീത ദിശയിൽ പ്രവർത്തിക്കുന്നു എന്നാണ് ആദ്യവർഷത്തെ നിലവാരത്തിന് ഇതുമതി കൂടുതൽ വേണ്ട അടുത്തത് പരമാവധി അഥവാ ബ്രെയ്ക്ക്ഡൌൺ ടോർക് എങ്ങനെ കണ്ടുപിടിക്കാം അതിനാൽ സമവാക്യം 27 ൽ നിന്ന് പരമാവധി ടോർക്ക് d Td S 0 എന്നതിനായുള്ള സമവാക്യം ഇതാണ് ഇതിന് നമുക്ക് S Smax T ലഭിക്കും d Td S അല്ലെങ്കിൽ d Td S 0 ആയി കണ്ട് ലഘൂകരിച്ചാൽ S യഥാർത്ഥത്തിൽ Smax T r2 കൂടാതെ r Thevenin 2 x Thevenin x 2 2 എന്ന അണ്ടർ റൂട്ട് r കൊണ്ടു ഹരിച്ചാൽ ഇത് 28ാം സമവാക്യമാണ് ഇപ്പോൾ S Smax T പകരം വയ്ക്കുകയാണെങ്കിൽ ഈ പ്രയോഗത്തിൽ ഇത്രയധികമുണ്ട് ലഘൂകരിച്ചാൽ T T max 3ω S ഈ കാര്യങ്ങൾ എല്ലാം എന്നു ലഭിക്കും ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് 0 5 VThevenin 2 നെ r Thevenin 2 x Thevenin x 2 22 കൊണ്ട് ഹരിക്കുക ഇത് സമവാക്യം 29 ആണ് അതിനാൽ സമവാക്യം 29 ൽ നിന്നു പരമാവധി ടോർക്ക് റോട്ടർ റെസിസ്റ്റൻസ് r2 ൽ നിന്ന് സ്വതന്ത്രമാണെന്ന് നിരീക്ഷിക്കാവുന്നതാണ് അത് സംഭവിക്കുന്ന സ്ലിപ്പ് അതിന് നേരിട്ട് ആനുപാതികമാണ് അതിനാൽ ഇവിടെ നോക്കുകയാണെങ്കിൽ അതായത് സ്ലിപ്പ് r2 ന് നേരിട്ട് ആനുപാതികമാണ് ഈ ഭാഗം റോട്ടർ റെസിസ്റ്റൻസ് r2 ൽ നിന്ന് സ്വതന്ത്രമാണ് അതിനാൽ ഇതാണ് സമവാക്യം 29 അടുത്തത് ആരംഭ ടോർക്ക് ആണ് സ്റ്റാർട്ട് സ്ലിപ്പ് 1 അതിനാൽ സമവാക്യം 27ൽ നിന്ന് S 1 ഇടുക അപ്പോൾ ഇത് സ്റ്റാർട്ടിംഗ് ടോർക്കിനുള്ള പ്രയോഗമാണ് റോട്ടർ സർക്യൂട്ടിൽ പ്രതിരോധം കൂട്ടിച്ചേർത്തുകൊണ്ട് ആരംഭ ടോർക് വർധിക്കുന്നു റെസിസ്റ്റൻസ് റോട്ടർ സർക്യൂട്ട് ചേർക്കുകയാണെങ്കിൽ r2 ഇവിടെയുണ്ട് അതിനാൽ ക്രമേണ അത് വർദ്ധിപ്പിക്കാൻ കഴിയും സമവാക്യം 28 ൽ നിന്ന് Smax T 1 ന് പരമാവധി ആരംഭ ടോർക്ക് കൈവരിക്കുന്നു അതായത് r2 എന്നത് √r Thevenin 2 x Thevenin x 2 2 ആണ് പരമാവധി ആരംഭ ടോർക്കിനുള്ള സമവാക്യം കൈവരിക്കുന്നത് സമവാക്യം 28 ൽ നിന്നാണ് അതിലേക്ക് വരികയാണെങ്കിൽ S 1 ആണെങ്കിൽ പരമാവധി ആരംഭ ടോർക്ക് നേടാനാകും കാരണം ഇതാണ് നമുക്കു ലഭിച്ച പരമാവധി സ്ലിപ് പ്രയോഗം അതു തുടങ്ങുന്നത് VThevenin 1 എന്നാണ് S 1 എന്നു ചേർത്താൽ r2 √r Thevenin 2 x Thevenin x 2 2 ആയിരിക്കും കൈവരിക്കുന്ന ആരംഭ ടോർക് ഇത് 28ാം സമവാക്യത്തിൽനിന്നാണ് ഇതാണ് 20ാം സമവാക്യം ഇതാണ് 28ാം സമവാക്യം സമവാക്യം 26ൽ നിന്ന് I2 എന്നത് VThevenin നെ ഈ ആവിഷ്കരണത്തിന്റെ വർഗമൂലം കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്നത് ആയിരിക്കും അത് നമുക്ക് ഇവിടെ നൽകിയിട്ടുണ്ട് അതിനാൽ തുടക്കത്തിൽ സ്ലിപ് 1 ആകുമ്പോൾ തുടക്കം ട 1 ആയിരിക്കും അതിനാൽ I2 ആരംഭിക്കുന്ന വൈദ്യുതി VThevenin ആയിരിക്കും ഇവിടെ നമ്മൾ S 1 ഇടുന്നു അതിനാൽ ഇതാണ് പ്രയോഗം ഞാൻ അർഥമാക്കുന്നത് എല്ലാം നേരെ ആണ് എന്നാണ് ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഓർത്താൽ മതി ബാക്കിയെല്ലാം സിംഗിൾ ഫേസ് സർക്യൂട്ട് പോലെ വ്യക്തമാക്കപ്പെടുമെന്നും ആണ് ഇനി സമവാക്യം 33 ൽ തുടക്കത്തിലുള്ള വൈദ്യുതി കുറയുമെന്നു വ്യക്തമാണ് അതിനാൽ അടുത്തത് സ്ലിപ് റിങ് ഇൻഡക്ഷൻ മോട്ടോറി ന്റെ പ്രയോജനം ഇതാണ് തുടക്കത്തിൽ കുറഞ്ഞ വൈദ്യുതിയിൽ ഉയർന്ന ആരംഭ ടോർക് നേടിയെടുക്കുന്നു നമുക്ക് ഇനിയൊരു ഏകദേശമായ കണക്കുണ്ടാക്കാം പ്രവർത്തന സവിശേഷത സംബന്ധിച്ച് അപൂർണ്ണമായ ഒരു ഉത്തരം ലഭിക്കുന്നതായി തോന്നുമ്പോൾ സ്റ്റേറ്റർ ഇംപെഡൻസ് അവഗണിക്കാവുന്നത്രയേ ഉള്ളൂ അതായത് r Thevenin 0 അത് അവഗണിക്കുകയാണെങ്കിൽ x Thevenin 0 അതാണ് ചിത്രം 13ൽ കാണിച്ചിരിക്കുന്നത് അത്തരം സാഹചര്യങ്ങളിൽ സംഭവിക്കുക VThevenin V ആണ് ഇവിടെ ഞാൻ സമവാക്യം 25ഉം എഴുതിയിട്ടുണ്ട് ചിത്രം പന്ത്രണ്ടും പതിമൂന്നും കാണുക ഈ മുൻധാരണയോടുകൂടി അതൊന്നു നോക്കൂ സമവാക്യം 32ൽ r Thevenin 0 x Thevenin 0 എന്നിവ പകരംവെക്കുമ്പോൾ I2 Vroot of r2 S2 x 2 2 എന്ന 34ാം സമവാക്യം ലഭിക്കും സമവാക്യം 27ൽ r Thevenin 0 x Thevenin 0 VThevenin V എന്നിവ പകരംവെക്കുമ്പോൾ ടോർക്ക് 3ω S V 2 r2 S എന്നതിനെ ഈ പ്രയോഗങ്ങളാൽ ഹരിക്കുക അതിനാൽ ഇത് സമവാക്യം 35 ആണ് ഇപ്പോൾ S Smax 2 അങ്ങനെ ചെയ്താൽ S r2 x 2 ആയി മാറും ഞാൻ ഉദ്ദേശിച്ചത് ഈ അനുമാനത്തെ അടിസ്ഥാനമാക്കി ആ Smax t മാറ്റി r Thevenin 0 S Thevenin 0 എന്നിവ ഇടുക S Smax t r2 x 2 ലഭിക്കും അതിനാൽ സംഖ്യാശാസ്ത്രം പരിഹരിക്കുന്നതിന് ചിലപ്പോൾ ഇത് ആവശ്യമായി വരും അതിനാൽ സ്റ്റാൻഡ് സ്റ്റിൽ റോട്ടർ റിയാക്ടറിലൂടെയുള്ള റോട്ടർ റെസിസ്റ്റൻസ് rotor resistance ആ പ്രയോഗത്തിൽ വെച്ചാൽ t മാക്സിമം ടോർക്ക് 3ω S 0 5 V 2x 2 എന്ന് ലഭിക്കും ഇത് സമവാക്യം 37 ആണ് അതുപോലെ തന്നെ ആരംഭ ടോർക്കിന്റെ ആ പ്രയോഗത്തിൽ r Thevenin 0 x Thevenin o VThevenin b എന്ന് ഇട്ടാൽ ആരംഭ ടോർക്ക് 3ω Sv 2 r2 ഇത് കൊണ്ട് ഹരിക്കണം ഇത് സമവാക്യം 38 ആണ് ആദ്യം നമ്മൾ വികസിപ്പിച്ചെടുത്തു തുടർന്ന് നമ്മൾ ചില ലളിതമായ അനുമാനങ്ങൾ ഉണ്ടാക്കുന്നു അതിനാൽ പരമാവധി ആരംഭ ടോർക് Smax T 1 ഈ വ്യവസ്ഥയിൽ നേടുന്നു ഇവിടെ r2 x 2 തുടക്കത്തിൽ ട 1 എന്ന് അനുമാനിക്കുകയാണെങ്കിൽ r2 S2 ആയിരിക്കും അതുകൊണ്ട് പരമാവധി തുടങ്ങുന്ന T ആ പ്രയോഗത്തിൽ ചേർത്താൽ T max 5 V 2x 2 ആയിരിക്കും അതുകൊണ്ട് ഇതെല്ലാം ലളിതമായ കാര്യങ്ങളാണ് ഈ പ്രയോഗം ലഭിക്കുo അടുത്തത് താഴ്ന്ന സ്ലിപ്പിൽ ചില ഏകദേശ ബന്ധം അപ്പോൾ നിർണയിച്ച പൂർണ്ണ ലോഡ് വേഗതയിൽ ഇൻഡക്ഷൻ മോട്ടോറിന്റെ സ്ലിപ്പ് വളരെ ചെറുതാണ് അതായത് r S x 2 അതിനാൽ x 2 ഒരു ലളിതമായ വിശകലനത്തിൽ പൂർണ്ണമായും അവഗണിക്കാം അതിനാൽ സമവാക്യം 34 തുടർന്ന് I2 ആയി ലളിതമാക്കിയത് I2 S vr2 ആയിരിക്കും നമ്മൾ x 2 അവഗണിക്കുകയാണ് കാരണം r2 S x 2 നേക്കാൾ വളരെ വലുതാണെന്ന് നമ്മൾ അനുമാനിക്കുന്നു കൂടുതൽ ലളിതമാക്കുന്നു അതിനാൽ ഞാൻ ഈ സമവാക്യത്തിലേക്ക് വീണ്ടും പോകുന്നില്ല എഴുതുക തുടർന്ന് ഇടുക അത് ലഭിക്കും അതുപോലെ സമവാക്യം 35 കാണുക ഈ അവഗണനയെ അടിസ്ഥാനമാക്കി ലളിതമാക്കുക ഞാൻ ഇവിടെ x 2 0 ഇടും അത്രമാത്രം T 3ω S അപ്പോൾ S v 2r2 ലഭിക്കും ഇത് സമവാക്യം 41 ആണ് അതിനാൽ സമവാക്യം 41 നോക്കുമ്പോൾ സ്ലിപ്പിന്റെ മേഖലയിൽ ടോർക്ക് സ്ലിപ്പ് ബന്ധം ഏതാണ്ട് രേഖീയമാണെന്നും നിരീക്ഷിക്കാവുന്നതാണ് സ്ലിപ് വളരെ ചെറുതായിരിക്കുമ്പോൾ ടോർക്ക് സ്ലിപ്പ് ബന്ധം തികച്ചും രേഖീയമാണെന്നും നിരീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് പരമാവധി ഊർജോൽപാദനം ഇൻഡക്ഷൻ യന്ത്രത്തിനു മാറ്റമില്ലാതെ തുടരുമെന്നു കാണാൻ കഴിയും ഇൻഡക്ഷൻ മോട്ടോറിന്റെ വേഗം ലോഡിനനുസരിച്ചു കുറയുകയാണെന്നും നമുക്കു കാണാൻ കഴിയും പരമാവധി ടോർക് വികസിക്കുന്ന സ്ലിപ്പായ വേഗത്തിന് ആനുപാതികമല്ല പൂരകമായ പരമാവധി യാന്ത്രികോർജ ഉൽപാദനം പരമാവധി യാന്ത്രികോർജം ലഭിക്കുന്നതിനായി ചിത്രത്തിൽ നിന്ന് വ്യവസ്ഥ നമുക് അറിയാം പരമാവധി ഊർജ കൈമാറ്റ സിദ്ധാന്തത്തിൽ ഡിസി സർക്യൂട്ടിൽ എസി സർക്യൂട്ടിൽ എല്ലാം നമ്മൾ കണ്ടു ആ സാഹചര്യത്തിൽ ലോഡ് റെസിസ്റ്റൻസ് r2 1S 1 ഇത് r Thevenin r2 2 x Thevenin x 2 2 എന്നതിന് തുല്യമായിരിക്കണം നമുക്കു ചിത്രം 13ലേക്കു പോകാം r2 ഉം പിന്നെ ഈ കാര്യങ്ങളും നോക്കാം സർക്യൂട്ട് നോക്കൂ പരമാവധി യാന്ത്രോകോർജ ഉൽപാദനത്തിനായി ലോഡ് റെസിസ്റ്റൻസ് ഇതായിരിക്കണം പക്ഷേ അത് ഭൌതികമായി സാധ്യമല്ല അതിനാൽ സമവാക്യം 42 നിർവചിച്ചിരിക്കുന്ന സ്ലിപ്പിന് അനുയോജ്യമായ പരമാവധി പവർ ഔട്ട്പുട്ട് കണ്ടെത്താനാകും എന്നിരുന്നാലും ഈ അവസ്ഥ വളരെ കുറഞ്ഞ കാര്യക്ഷമതയും വളരെ വലിയ വൈദ്യുതധാരയുമായി പൊരുത്തപ്പെടുന്നു ഇത് മോട്ടോറിന്റെ സാധാരണ പ്രവർത്തന മേഖലയ്ക്ക് അപ്പുറത്താണ് ഭൌതികമായി അത് സാധ്യമല്ല പരമാവധി പവർ ട്രാൻസ്ഫർ സിദ്ധാന്തം ഉപയോഗിക്കുക ചിത്രം 3 ലേക്ക് പോകുക വ്യവസ്ഥയിൽ നിന്ന് അത് ഉണ്ടാക്കാം ഡിസി സർക്യൂട്ടുകളിലെ പരമാവധി പവർ ടെസ്റ്റ് സിദ്ധാന്തത്തിന് അത് r ലോഡ് r തെവെനിൻ അല്ലെന്നും ഞങ്ങൾ കണ്ടു അതിനാൽ ഇവിടെയും r2 ചേർത്തതിനാൽ x 2 ചേർത്തു ഇവിടെ ഇതൊരു ac സർക്യൂട്ട് ആണ് അതിനാൽ അതുകൊണ്ടാണ് ഇംപെഡൻസ് ഭാഗം ഉള്ളത് ഇപ്പോൾ ശരി